ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ക്ലോക്ക് സ്ക്യൂ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചില പൊതു തന്ത്രങ്ങളെക്കുറിച്ചാണ് കാരണം ആത്യന്തികമായി ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരു ക്ലോക്ക് പിൻയിൽ നിന്ന് ഒരു ക്ലോക്ക് നെറ്റ്നൽകണം അത് ക്ലോക്കിന് ഭക്ഷണം നൽകും എല്ലാ ടെർമിനൽ പോയിന്റുകളിലേക്കും സിഗ്നൽ നൽകുക ഈ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിൽ ഞങ്ങൾ ഈ സ്ക്യൂ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനാൽ ഏതെങ്കിലും 2 ടെർമിനൽ പോയിന്റുകളിലുടനീളം ക്ലോക്ക് സിഗ്നലിന്റെ വരവ് സമയത്തിലോ ക്ലോക്ക് അരികുകളിലോ ഉള്ള പരമാവധി വ്യത്യാസം ഒരു പരിധിക്കുള്ളിൽ സൂക്ഷിക്കണം അതിനാൽ ആദ്യം നമ്മൾ ക്ലോക്കുകൾ സ്ക്യൂ കുറയ്ക്കുന്നതിനുള്ള വിശാലമായ തന്ത്രങ്ങൾ നോക്കുന്നു അതിനാൽ ഈ 2 പ്രധാന തന്ത്രങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം ആദ്യ തന്ത്രം പറയുന്നത് എല്ലാ ക്ലോക്ക് ഇൻപുട്ടുകളും ഒരുമിച്ച് കണ്ടെത്തുക എന്നാണ് അതിനാൽ ഞാൻ ചിത്രീകരിക്കട്ടെ എനിക്ക് ഒരു ചിപ്പ് ഉണ്ടെന്ന് കരുതുക എന്റെ എല്ലാ ക്ലോക്കും അർത്ഥമാക്കുന്നത് ക്ലോക്ക് ഇൻപുട്ട് എനിക്ക് ക്ലോക്ക് സിഗ്നൽ നൽകേണ്ട സ്ഥലങ്ങൾ അവയെല്ലാം ഒരുമിച്ച് സ്ഥിതിചെയ്യുന്നു ഇങ്ങനെ പറയട്ടെ ഇത് എന്റെ ക്ലോക്ക് പിൻ ആണെന്ന് പറയട്ടെ ക്ലോക്ക് സിഗ്നൽ എന്റെ ചിപ്പിലേക്ക് പ്രവേശിക്കുന്നിടത്ത് നിന്ന് അതിനാൽ ഈ ക്ലോക്ക് സിഗ്നൽ ഇതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഏത് തന്ത്രം ഉപയോഗിച്ചാലും എനിക്ക് ഇതുപോലുള്ള ചില കണക്ഷനുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുക ഈ നെറ്റിന്റെ ഒരു പ്രധാന ഭാഗം ഉണ്ടെന്ന് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ ഭാഗം സാധാരണമാണ് ഇവിടെ ഈ പ്രദേശത്ത് ചില വ്യതിയാനങ്ങൾ ഉണ്ട് 2 വയർ നീളങ്ങൾ അല്പം വ്യത്യസ്തമാണ് അതിനാൽ മൊത്തത്തിൽ ഈ സ്ക്യൂ ഈ പ്രാദേശിക മേഖലയിലെ വയറുകളുടെ വ്യതിയാനമായി പരിമിതപ്പെടുത്തും ഇപ്പോൾ ഈ ക്ലോക്ക് പിന്നുകൾഒരു ചെറിയ പ്രദേശത്തിനകത്ത് സ്ഥിതിചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യതിയാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ പരമാവധി വ്യതിയാനവും നിയന്ത്രിക്കാനാകും അതിനാൽ ഈ തന്ത്രം അർത്ഥമാക്കുന്നത് ഇത് ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഉൾപ്പെടുത്തുന്നത് പ്രായോഗികമായി എളുപ്പമല്ല കാരണം ഒരു പൊതു ചിപ്പിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലായിടത്തും ക്ലോക്കുകൾ ആവശ്യമായി വരും ഒരു ചെറിയ ജ്യാമിതീയ മേഖലയിൽ മാത്രമേ ക്ലോക്കുകൾ സ്ഥിതിചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയില്ല അതിനാൽ ഈ തന്ത്രം പൊതുവെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞതിനാൽ ഇത് ആദ്യത്തെ തന്ത്രമായിരുന്നു രണ്ടാമത്തെ തന്ത്രം നന്നായി അവരെ അടുപ്പിക്കാൻ ശ്രമിക്കരുത് പക്ഷേ കാലതാമസം സന്തുലിതമാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ അതേ ക്ലോക്ക് പിൻ സിഗ്നലിനെ പോഷിപ്പിക്കുന്നു പക്ഷേ കാലതാമസം ഒരു വിധത്തിൽ സന്തുലിതമാകുന്ന തരത്തിൽ നമുക്ക് വയറുകളെ നയിക്കാം അതിനാൽ ആദ്യത്തെ തന്ത്രം നടപ്പിലാക്കുന്നതിലെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ സാധാരണയായി രണ്ടാമത്തെ തന്ത്രം ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ആദ്യം രണ്ടാമത്തെ തന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ ഈ രണ്ടാമത്തെ തന്ത്രം വീണ്ടും വിശാലമായി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആദ്യ അർത്ഥം സമീപനം എനിക്ക് ക്ലോക്ക് സിഗ്നൽ അയയ്ക്കേണ്ട നിശ്ചിത എണ്ണം പിന്നുകൾ ഉള്ളത് പോലെയാണ് അതിനാൽ ഓരോ ക്ലോക്ക് സിഗ്നലുകളിലേക്കും സ്വതന്ത്ര കണക്കുകൂട്ടലുകൾ വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതായത് കാലതാമസം ഏകദേശം തുല്യമാണ് അല്ലെങ്കിൽ പൊതുവായ ഒരു നെറ്റ്വർക്ക് ലേഔട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു പിന്നീട് ഞാൻ ചില നെറ്റ്വർക്കുകളിലേക്ക് പിൻസ് ബന്ധിപ്പിക്കാൻ ശ്രമിക്കും വഴി ജനറൽ നെറ്റ്വർക്ക്ജനറൽ networkഇടുന്നത് എളുപ്പമാകും ചിപ്പിലുടനീളം ക്ലോക്കുകൾ ലഭ്യമാകും എന്ന അർത്ഥത്തിൽ കൂടുതൽ സാമാന്യമായിരിക്കും തുടർന്ന് അവ എവിടെയാണെങ്കിലും കൃത്യമായ പിൻ ലൊക്കേഷൻ നിങ്ങൾ അടുത്തുള്ള ക്ലോക്ക് പോയിന്റിലേക്ക് കണക്റ്റുചെയ്യാൻ ശ്രമിക്കുന്നു ഞങ്ങൾ പിന്നീട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും അതിനാൽ ഞാൻ ഇവിടെ സംസാരിച്ച ആദ്യത്തെ ബദൽ ഇതിനെ ചിലന്തി കാലുകളുടെ വിതരണം എന്ന് വിളിക്കുന്നു നന്നായി ചിലന്തി ലെഗ് വിതരണത്തിന് നിരവധി സ്വഭാവ സവിശേഷതകളുണ്ട് ഞാൻ ഇത് വിശദീകരിക്കും ആദ്യം ചിലന്തി ലെഗ് വിതരണ ശൃംഖലഎങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇതുപോലെ കാണപ്പെടുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് ഉറവിടം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇത് ചിപ്പിന് പുറത്ത് നിന്ന് വന്നേക്കാം നിങ്ങൾക്ക് ഒരു ശക്തമായ ഡ്രൈവർ ഉണ്ട് കാരണം ഈ ഡ്രൈവർ ഈ ശാഖകളിലെല്ലാം കറന്റ് നൽകാൻ കഴിയും ശാഖകളുടെ എണ്ണം ആകാം വലിയ വലത് അതിനാൽ ക്ലോക്ക് സിഗ്നലുകൾ ആവശ്യമുള്ള അവസാന പോയിന്റുകൾ ഇവയാണ് ക്ലോക്ക് പിൻസ് ഞാൻ അവരെ വിളിക്കുന്നു അവ ഏകപക്ഷീയമായി സ്ഥിതിചെയ്യുന്നതിനാൽ ഈ കൈകൾ ചിലന്തിയുടെ കാലുകൾ പോലെ കാണപ്പെടും അവ സാധാരണയായി മറ്റൊന്ന് ഈ ക്ലോക്ക് സിഗ്നൽ ആണ് ഈ വക്രതയും പരിഭ്രമവും ആവശ്യകതകളും കാരണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ക്ലോക്ക് സിഗ്നലും പിന്നീട് പവറും ഗ്രൌണ്ട് സിഗ്നലുകളും ഞങ്ങൾ കാണും സിഗ്നൽ റൂട്ടിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ ഒരേ പാളിയിൽ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് 2 ലെയർ 3 ലെയർ ഇത്തരത്തിലുള്ള റൂട്ടിംഗ് ചെയ്യാമെന്ന് അറിയാം അതിനാൽ ഞങ്ങൾ ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക് മാറുമ്പോഴെല്ലാം ഒരു വയർ കണക്ഷൻ ഉണ്ട് എന്നാൽ ക്ലോക്കിൽ നിങ്ങൾക്ക് വയർ കണക്ഷൻ ഉള്ളപ്പോഴെല്ലാം അധിക കാലതാമസം നേരിടും അതിനാൽ ആ കാലതാമസം ശരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ക്ലോക്കിലോ പവറിലോ ഞങ്ങൾ സാധാരണയായി അത്തരം വയറുകൾ ഉപയോഗിക്കില്ല അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനാകൂ അല്ലാത്തപക്ഷം ഒരേ ലയർ ൽ വയറുകൾ ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ബാക്കി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ ഡ്രൈവർ വേണ്ടത്ര ശക്തനായിരിക്കണം അതിനാൽ ഞാൻ ഒരു ശക്തനായ ഡ്രൈവർ ആണെന്ന് ഞാൻ പറയുമ്പോൾ ഒരു ശക്തമായ ഡ്രൈവർ സൃഷ്ടിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും അതിനാൽ തിരികെ പോകും അതിനാൽ ഞങ്ങൾ ഒരു ഡ്രൈവർ ഉപയോഗിക്കുന്നു നമുക്ക് N പോയിന്റുകൾ പറയാം N ക്ലോക്ക് പിന്നുകൾ ഉണ്ട് ഞങ്ങൾ ഈ N പിൻകളെല്ലാം ഓടിക്കുന്നു അതിനാൽ ക്ലോക്ക് ഉറവിടത്തിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കും ഒരു പ്രത്യേക വയർ പോകും ശരിയാണ് ഇപ്പോൾ ഒരു കാര്യം ട്രാൻസ്മിഷൻ ലൈനുകൾപരിചയമുള്ളവർക്ക് അറിയാം നിങ്ങൾ ഒരു നീണ്ട ട്രാൻസ്മിഷൻ ലൈൻ ഓടിക്കുമ്പോഴെല്ലാം പ്രതിഫലനവും മറ്റ് പ്രശ്നങ്ങളും പോലുള്ള ചില ഇഫക്റ്റുകൾ ഉണ്ടാകുമെന്നതിനാൽ അതിനാലാണ് ഞങ്ങൾ സാധാരണയായി അവസാനിക്കുന്ന പ്രതിരോധം ഉപയോഗിക്കേണ്ടത് നേർത്തതും കട്ടിയുള്ളതുമായ ഇഥർനെറ്റ് കേബിളുകൾ കണ്ടിട്ടുള്ളവർക്കായി നിങ്ങൾ നെറ്റ്വർക്ക് കേബിളുകൾ സ്ഥാപിക്കുമ്പോൾ നേരത്തെ കാണുക അതിനാൽ അവസാനം സാധാരണയായി 75 ഓം അല്ലെങ്കിൽ 300 ഓം അവസാനിപ്പിക്കൽ പ്രതിരോധം ഉണ്ടായിരുന്നു അത് ട്രാൻസ്മിഷൻ ലൈൻ ആവശ്യകതകളുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് അതിനാൽ ഇവിടെയും ഇതുപോലെയായിരിക്കും ഈ കാലുകൾ ട്രാൻസ്മിഷൻ ലൈനുകളായികണക്കാക്കാം അതിനാൽ ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഓരോ അറ്റത്തും നിങ്ങൾക്ക് അവസാനിപ്പിക്കൽ അവകാശത്തിനായി ഒരു പ്രതിരോധം ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഇവ അധിക ഓവർഹെഡുകളാണ് എന്നാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ മൊത്തം ലോഡ് റെസിസ്റ്റൻസ് R N ഔട്ട്പുട്ടുകൾ ഉണ്ട് ഈ പ്രതിരോധം R ആണെന്ന് കാണുക R R R R ഈ പ്രതിരോധങ്ങളെല്ലാം സമാന്തരമായി ദൃശ്യമാകുന്നത് കാണട്ടെ കാരണം ഇവ സമാന്തര കണക്ഷനുകളാണ് അതിനാൽ ഈ ഡ്രൈവർ ഓടിക്കുന്ന ഫലപ്രദമായ ലോഡ് ഇതായിരിക്കും R നെ N കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ R 75 ഓം ആണെങ്കിൽ നിങ്ങൾ 3 പോയിന്റുകൾ ഓടിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ലോഡ് 25 ഓം ആയിരിക്കും ഉയർന്ന പവർ ഡ്രൈവിംഗ്ശേഷിക്ക് നിങ്ങൾ പലപ്പോഴും രണ്ടോ അതിലധികമോ ഡ്രൈവറുകൾ സമാന്തരമായി ബന്ധിപ്പിക്കേണ്ടതായി വന്നേക്കാവുന്ന ഒരു പോയിന്റാണിത് അതിനാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തന്ത്രമാണിത് എന്നാൽ വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ചില പോരായ്മകളുണ്ട് നിങ്ങൾ ഒരു പ്രതിരോധം ഉപയോഗിച്ച് ഓരോ ക്ലോക്ക് പിൻ ഉപയോഗിക്കുകയും അവസാനിപ്പിക്കുകയും വേണം അത് അധിക പ്രദേശം അധിക ഓവർഹെഡ് എപ്പോഴും പ്രായോഗികമാകില്ല അതിനാൽ ഈ രീതി നിങ്ങൾക്ക് ഒരു ബദൽ ആണെങ്കിലും നിങ്ങൾക്ക് ക്ലോക്ക് വ്യത്യസ്ത കുറ്റിയിലേക്ക് മാറ്റാൻ കഴിയും വീണ്ടും ചിലന്തികളുടെ എല്ലാ കാലുകളും ഏകദേശം തുല്യമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ആ ലക്ഷ്യത്തിനായി നിങ്ങൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ റൂട്ട് ചെയ്യേണ്ടിവരും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വഴിതിരിവ് നടത്തണം അതിനെ പാമ്പിനെ വിളിക്കുന്നു ഒരു പാമ്പ് ഇതുപോലെ കിടക്കുന്നു നേരെ കടന്നുപോകുന്നതിനുപകരം പൊരുത്തപ്പെടുന്നതിന് നിങ്ങൾ മനപ്പൂർവ്വം ഒരു വരി ഉണ്ടാക്കുന്നു അത് മറ്റൊരു വരിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനാൽ രണ്ടാമത്തെ ബദൽ ക്ലോക്ക് വിതരണ വൃക്ഷമാണ് അതിനാൽ ക്ലോക്ക് വിതരണ മരം ഇതുപോലെ കാണപ്പെടുന്നു അതിനാൽ ഒരൊറ്റ ഡ്രൈവറിനുപകരം നിങ്ങൾ ഇവിടെ കാണുന്നു എനിക്ക് നിരവധി ഡ്രൈവർമാരുണ്ട് ഇവരാണ് ഡ്രൈവർമാർ ഈ ഡ്രൈവറുകൾ ഒരു മരത്തിന്റെ ശാഖകൾക്കൊപ്പം സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഒരു മരം പോലെ ക്ലോക്ക് നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നു ഇപ്പോൾ ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 12 ടെർമിനൽ പോയിന്റുകൾഉണ്ടെന്ന് കരുതുക അതിനാൽ ഒരു ക്ലോക്ക് ഉറവിടത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം 3 ക്ലോക്ക് ഉറവിടത്തിലേക്ക് പോകുന്നു തുടർന്ന് ഈ ഡ്രൈവർ ഓരോരുത്തരും 4 ലൈനുകൾ ഓടിക്കുന്നു ഈ ഡ്രൈവർ ഓരോന്നും ഞാൻ കാണിക്കുന്നു അത് വീണ്ടും ഡ്രൈവ് ചെയ്തേക്കാം 4 ഞാൻ ഞാൻ ഒരു വരി കാണിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം 2 തരമാണ് ആദ്യം നിങ്ങൾക്ക് വളരെ വലിയ ഡ്രൈവറുകൾ ആവശ്യമില്ല നിങ്ങൾക്ക് ചെറിയ ഡ്രൈവറുകൾ ആവശ്യമാണ് എല്ലാ ഡ്രൈവറുകളും ഒരേ അളവിലും വലുപ്പത്തിലും ആകാം രണ്ടാമതായി നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ സിഗ്നലുകളുടെ പ്രധാന കാലതാമസം ഡ്രൈവർമാരുടെ കാലതാമസം ആയിരിക്കും കാരണം ഈ ഇന്റർകണക്ഷൻ കാലതാമസം ചെറുതായിരിക്കും അതിനാൽ ഈ ഇന്റർകണക്ഷന്റെ കാലതാമസം ഡ്രൈവറുടെ കാലതാമസത്തേക്കാൾ വളരെ ചെറുതായിരിക്കും പക്ഷേ വയർ ദൈർഘ്യം ഏകദേശം തുല്യമാകുന്ന വിധത്തിൽ ഞങ്ങൾ വയറുകളുടെ ലേഔട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും അതിനാൽ ക്ലോക്ക് ഉറവിടം മുതൽ ക്ലോക്ക് ടെർമിനലുകൾ വരെ നിങ്ങൾക്ക് കൃത്യമായി 3 ഡ്രൈവറുകൾ കടന്നുപോകേണ്ടതുണ്ട് അതിനാൽ ക്ലോക്ക് ഉറവിടത്തിൽ നിന്നുള്ള കാലതാമസം ക്ലോക്ക് ടെർമിനൽ പോയിന്റുകൾ എന്നിവ ഏകദേശം തുല്യമാകുന്ന തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലോക്ക് നെറ്റ്വർക്ക്സ്ഥാപിക്കുന്നത് എന്നതാണ് ആശയം നിങ്ങൾ സഞ്ചരിക്കുന്ന ഡ്രൈവറുകളുടെ എണ്ണം എണ്ണത്തിൽ തുല്യമാണ് കൂടാതെ ഒരു ഡ്രൈവർ അടുത്തതായി നിങ്ങൾ ലേഔട്ട് ചെയ്യുമ്പോൾ അത് ഒരു സാധാരണ ലേഔട്ട് ആയിരിക്കണം വയർ ദൈർഘ്യം എല്ലാം തുല്യമായിരിക്കണം അതിനാൽ ആ കാലതാമസം ഏകദേശം തുല്യ അവകാശമായിരിക്കും അതിനാൽ ക്ലോക്ക് വിതരണ വൃക്ഷത്തിന്clock distribution tree പിന്നിലെ അടിസ്ഥാന തത്വമാണിത് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ക്ലോക്ക് ബഫറുകൾഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഞാൻ കാണിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലോക്ക് ബഫറുകൾ എന്തുകൊണ്ട് ആവശ്യമാണ് നന്നായി ക്ലോക്ക് ബഫറുകൾ നിങ്ങൾ കൂടുതൽ കറന്റ് ഓടിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തമായ കാരണം ഒരുപക്ഷേ ക്ലോക്ക് ഉറവിടത്തിന് 100 അല്ലെങ്കിൽ 1000 പോയിന്റുകളിലേക്ക് കറന്റ് ഓടിക്കാൻ കഴിയില്ല അതിനാൽ വൈദ്യുത പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന് എനിക്ക് ബഫറുകൾ ആവശ്യമാണ് പക്ഷേ മറ്റ് കാരണങ്ങളും ഉണ്ട് ഒന്നാമത്തേത് ക്ലോക്ക് സിഗ്നൽ ആഗോള സ്വഭാവമുള്ളതാണ് ക്ലോക്ക് ലൈനുകൾ സാധാരണയായി ചിപ്പിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളമുള്ളതാണ് അത് പോകാം നീണ്ട വരികൾ ഉണ്ടെങ്കിൽ വിതരണ ശേഷിയും പ്രതിരോധവും ഉണ്ടാകും ആർസി കാലതാമസം ഉണ്ടാകും അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുപോലൊരു ചിപ്പ് ഉണ്ടെന്ന് കരുതുക എന്നതാണ് അതിനാൽ എനിക്ക് ഇവിടെ ഒരു ക്ലോക്ക് പിൻ ഉണ്ട് ഈ ക്ലോക്ക് പിൻയിൽ നിന്ന് ഞാൻ ഒരു നീണ്ട ക്ലോക്ക് വയർ ഇടുന്നു നമുക്ക് ഇവിടെ ഒരു പിൻ പറയാം ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻഘടകങ്ങൾ കാരണം ഈ ലൈനിൽ പ്രതിരോധശേഷിയുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകും കപ്പാസിറ്റീവ് ഇഫക്റ്റുകൾഉണ്ടാകും എല്ലായിടത്തും ഒരു സ്ഥലത്തല്ല അതിനാൽ ലൈനിന്റെ ദൈർഘ്യം ആർസിയുടെ മൂല്യങ്ങളായിരിക്കും കൂടാതെ ആർസി തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിനെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ അതിനെ ആർസി കാലതാമസംഎന്ന് വിളിക്കുന്നു അതിനാൽ ഒന്നുകിൽ ആർ കുറയ്ക്കുകയോ സി കുറയ്ക്കുകയോ ചെയ്താൽ കാലതാമസം ശരിയാകും എന്നാൽ ഞങ്ങൾക്ക് ഒരു നീണ്ട വയർ ഉണ്ടെങ്കിൽ ഈ ആർ സി എന്നിവ രണ്ടും കൂടുതലായിരിക്കും എന്നാൽ ഇതിനു വിപരീതമായി സിംഗിൾ ലോംഗ് വയറിന് പകരം ഞങ്ങൾ ഇത് ചെയ്താൽ ബഫറുകൾ തിരുകി ചെറിയ കഷണങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഫലപ്രദമായ ആർസി കാലതാമസം ഈ സെഗ്മെന്റുകൾ വളരെ കുറവായിരിക്കും കൂടാതെ ഒരു നീണ്ട വയറിനുള്ള സംഭാവന ചെറിയ വയറിനേക്കാൾ വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു അതിനാൽ ഈ ഹ്രസ്വ സെഗ്മെന്റുകളുടെ കാലതാമസത്തിന്റെ തുക നിങ്ങൾക്ക് ഒരു സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ഈ നീണ്ട സെഗ്മെന്റിന്റെ കാലതാമസത്തേക്കാൾ വളരെ കുറവായിരിക്കും അതിനാൽ ഒരു നീണ്ട പരസ്പരബന്ധം ഹ്രസ്വമായ ഇന്റർ കണക്ഷനുകളായി തകർക്കാൻ ഞങ്ങൾ ബഫറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള കാലതാമസം കുറവായിരിക്കും എന്നതാണ് ഒരു കാരണം വയറുകൾ വീതികൂട്ടുന്നതിലൂടെ എനിക്ക് എന്റെ ആർസി കാലതാമസം കുറയ്ക്കാനാകുമെന്ന് നിങ്ങൾക്ക് വാദിക്കാം നോക്കൂ ഞാൻ സംസാരിക്കുന്നത് ആർസി വലത് പ്രതിരോധം ശേഷിright resistance and capacitance എന്നിവയെക്കുറിച്ചാണ് അതിനാൽ ഞാൻ ഇതുപോലെ ഒരു വയർ ഇടുകയാണെന്ന് കരുതുക ഞാൻ അതിനെ ഒരു ദീർഘചതുരം പോലെ കാണിക്കുന്നു അതിനാൽ ഒരു ബദലായി എനിക്ക് അതിനെ കൂടുതൽ വിശാലമാക്കാമായിരുന്നു അതിനാൽ ഞാൻ അതിനെ വിശാലമാക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ പ്രതിരോധത്തെ അർത്ഥമാക്കും എന്നാൽ ഇത് കപ്പാസിറ്റൻസിന്റെ വർദ്ധനയും അർത്ഥമാക്കും കാരണം വയർ വീതിയേറിയതാണെങ്കിൽ മറ്റൊരു ലെയറിലേക്കുള്ള കപ്പാസിറ്റൻസും കൂടുതൽ ശരിയാകും കാരണം വിശാലമായ വയർ മറ്റൊരു ലെയറിനേക്കാൾ കൂടുതൽ കപ്ലിംഗ് ആയിരിക്കും ഫോർമുല പ്ലേറ്റിന്റെ വിസ്തീർണ്ണത്തിന് ആനുപാതികമാണെന്നും നിങ്ങൾ വയറുകൾ വിശാലമാക്കുകയാണെങ്കിൽ പ്ലേറ്റിന്റെ വിസ്തീർണ്ണം വർദ്ധിക്കുമെന്നും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കപ്പാസിറ്റൻസിന്റെ മൂല്യം കാണുക അതിനാൽ ശേഷി വർദ്ധിക്കുന്നു അതിനാൽ വയറുകൾ ഇടുങ്ങിയതോ വീതിയേറിയതോ ആക്കുന്നത് നിങ്ങളെ സഹായിക്കില്ല ഇടയിൽ ബഫറുകൾ ഉൾപ്പെടുത്തുകയോ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ടിവരും ശരിയാണ് അതിനാൽ ആർസി കാലതാമസം കുറയ്ക്കുന്നതിന് ബഫറുകൾ ഉൾപ്പെടുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ഉള്ള നിഗമനം പക്ഷേ മറ്റൊരു നേട്ടമുണ്ട് ഇത് ക്ലോക്ക് വേവ്ഫോം സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താണ് അതിനാൽ ഒരു സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ 0 1 എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ദീർഘദൂരത്തിലൂടെ സഞ്ചരിക്കുന്നു അതിനാൽ വീണ്ടും ഈ ആർസി പ്രഭാവം കാരണം സിഗ്നലിന്റെ സ്വഭാവം വികലമാകുന്നു ആശയവിനിമയ ലൈനിന്റെ ദൈർഘ്യം കൂടുന്തോറും വ്യതിചലനം കൂടുതലായിരിക്കും അതിനാൽ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഒരു ബഫർ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ സിഗ്നലിന്റെ ബഫറിന്റെ ഔട്ട്പുട്ട് വീണ്ടും വികലരഹിതമാകും അതിനാൽ പരമാവധി അളവിലുള്ള സിഗ്നൽ ശബ്ദമോ വ്യതിചലനമോ ഞങ്ങൾ നിയന്ത്രിക്കുന്നു അത് ബഫറുകളിൽ പോകാം കാലതാമസം വർദ്ധിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തം വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ധാരാളം ബഫറുകൾ അവതരിപ്പിക്കപ്പെടാം കൂടാതെ മൊത്തം വിസ്തൃതിയുടെ 5 ശതമാനം വരെ അത് ഉൾക്കൊള്ളാൻ കഴിയും അപ്സ്ട്രീം ലോഡ് ഇംപെഡൻസുകളിൽനിന്ന് ക്ലോക്ക് നെറ്റ് വേർതിരിക്കാൻ ഈ ബഫറുകൾ സഹായിക്കുന്നു അതിനാൽ ഈ പോയിന്റ് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് നേരിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ബഫർ ഉണ്ടെന്ന് കരുതുക 100 ക്ലോക്ക് ലോഡുകൾ പറയട്ടെ അതിനാൽ ഞാൻ ഓടിക്കുന്ന മൊത്തം ലോഡ് ആ 100 ലോഡുകളാണ് അതിനാൽ ഓരോ ലോഡിനും ചില കപ്പാസിറ്റൻസ് മൂല്യം ഉണ്ടായിരിക്കും അവയെല്ലാം 100 സി കൂട്ടിച്ചേർക്കും എന്നാൽ ഞങ്ങൾ പല വിതരണ രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ഡ്രൈവർക്കും 100 ഓടിക്കില്ല പക്ഷേ 4 അല്ലെങ്കിൽ 5 വരെ മാത്രം ഞാനും ഡ്രൈവിംഗ് പരിമിതപ്പെടുത്തുന്നു അതിനാൽ അത് വേഗത്തിലാകും അതിനാൽ ഈ ഡയഗ്രം യഥാർത്ഥത്തിൽ ഞാൻ ഡയഗ്രമാറ്റിക്കലായി പറഞ്ഞതെന്തും സംഗ്രഹിക്കുന്നു നിങ്ങൾ ക്ലോക്ക് ട്രീയുടെശാഖകളിൽ ബഫറുകൾ വിതരണം ചെയ്യുകയാണെങ്കിൽ അതിനാൽ ഓരോ ശാഖയിലും ഇതുപോലെ ഒരു പ്രതിരോധശേഷിയുള്ളതും കപ്പാസിറ്റീവ് ഇഫക്റ്റുകളുംകാണിക്കും എന്നാൽ ഇത് ചെറിയ വയർ സെഗ്മെന്റുകളിൽപരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഓരോ സെഗ്മെന്റുകൾക്കുമുള്ള ആർസികാലതാമസം വളരെ കുറവായിരിക്കും ഒടുവിൽ നിങ്ങളുടെ ഡ്രൈവ് യഥാർത്ഥ സർക്യൂട്ടുകൾ ക്ലോക്കുകൾ ആവശ്യമുള്ള തുടർച്ചയായ ഘടകങ്ങൾ അതിനാൽ ചുരുക്കത്തിൽ ചിപ്പിലുടനീളം വ്യാപിക്കാൻ കഴിയുന്ന നിരവധി ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് നിങ്ങൾ ഒരു ക്ലോക്ക് ഉറവിടം അയയ്ക്കേണ്ടതുണ്ട് ഇവയെ ക്ലോക്ക് സിങ്കുകൾഎന്ന് വിളിക്കുന്നു അതിനാൽ ഈ വലകൾ നീളമുള്ള വയറുകളിലൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അയയ്ക്കുകയോ റൂട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല മറിച്ച് ഇതുപോലുള്ള ഒരു മരത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ ബഫറുകൾ അവതരിപ്പിക്കുന്നു തുടർന്ന് ഈ ഫ്ലിപ് ഫ്ലോപ്പുകൾ നേരിട്ട് വലിക്കാൻ ഈ ബഫറുകൾ ഉപയോഗിക്കാം ഇതാണ് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചത് ഇപ്പോൾ ക്ലോക്ക് ബഫറിംഗുമായി ബന്ധപ്പെട്ട് വിശാലമായ സമീപനങ്ങൾ നോക്കാം മരത്തിന്റെ ശാഖകളിൽ ഞങ്ങൾ ബഫറുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് കരുതുക ഞങ്ങൾ എല്ലാ വലിയ ക്ലോക്ക് സിങ്കുകളും ഓടിക്കാൻ പര്യാപ്തമായ ഒരു വലിയ ബഫർ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിന് മതിയായ ക്ലോക്ക് ഡ്രൈവിംഗ് ശേഷി ഉണ്ടായിരിക്കും ഇപ്പോൾ CMOS സാങ്കേതികവിദ്യയിൽ നിന്ന് അറിയപ്പെടുന്ന ചില ഫലങ്ങൾ ഉണ്ട് നിങ്ങൾ അത്തരം ബഫറുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും സാധ്യമായ ഒരു വലിയ ബഫർ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ പക്ഷേ ആ ബഫറിന് വളരെ വലിയ അളവിലുള്ള ട്രാൻസിസ്റ്ററുകൾആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്ററുകൾ വലുതാക്കുമ്പോൾ ട്രാൻസിസ്റ്ററുകളുടെ പ്രതിരോധം അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് മൂല്യം വർദ്ധിക്കും അത് ട്രാൻസിസ്റ്ററുകളുടെ സ്വിച്ചിംഗ് കാലതാമസം വർദ്ധിപ്പിക്കും ഓൺ 0 മുതൽ 1 അല്ലെങ്കിൽ 1 മുതൽ 1 വരെ 1 കാലതാമസം അല്ലെങ്കിൽ 1 മുതൽ 0 വരെ കാലതാമസം അതിനാൽ ഒരു പൊതു ഡിസൈൻ മാർഗ്ഗനിർദ്ദേശം ഒരു വലിയ ബഫർ ഉപയോഗിക്കുന്നതിനുപകരം നിങ്ങൾ ഇതുപോലുള്ള ഒന്ന് ഉപയോഗിക്കുന്നു എന്നതാണ് ആദ്യം വളരെ ചെറിയ ബഫർ ഉപയോഗിക്കുക തുടർന്ന് നിങ്ങൾ അൽപ്പം നീളമുള്ള ബഫർ ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ബഫർ ഉപയോഗിക്കുന്നു അതിനാൽ ഓരോ ബഫറും മറ്റൊന്നിനേക്കാൾ വലുതാണ് എഫ് അതിനാൽ ഇതിന്റെ 1 വലിപ്പം f ആണെങ്കിൽ ഇത് f സ്ക്വയർ ആകും അങ്ങനെ ഇത് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്ആണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ f തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ ഈ രീതിയിലെ മൊത്തം കാലതാമസം ഉണ്ടാകുമെന്ന് കാണിച്ചിരിക്കുന്നു തികച്ചും ഒപ്റ്റിമൈസ് ചെയ്തത് ഒരൊറ്റ ബഫർ തരത്തിലുള്ള കാര്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനാൽ ഈ ഡയഗ്രാമിൽ അതിനാൽ ഞങ്ങൾ വലിയ കേന്ദ്രീകൃത ബഫർ കാണുന്നുണ്ടെങ്കിലും ആ കേന്ദ്രീകൃത ബഫർക്രമേണ വലിയ ബഫറിന്റെ ഒരു ശൃംഖലയായി ഞങ്ങൾ കാണിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞതുപോലെ എന്നാൽ ഈ ഒരൊറ്റ കേന്ദ്രീകൃത ബഫർ എല്ലാ സിങ്കുകളും ഓടിക്കാൻ പര്യാപ്തമാണ് അതിനാൽ വയറുകളുടെ നീളം ഏകദേശം തുല്യമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് ലേഔട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്കേവ് മിനിമൈസേഷൻനടക്കും ഇപ്പോൾ ഈ സമീപനം നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുമോ ഇത് നിങ്ങളുടെ ബഫർ ഒരിടത്ത് ഉള്ളതിനാൽ ഇത് നിങ്ങൾക്ക് മികച്ച സ്കേവ് മിനിമൈസേഷൻ നൽകും നീളത്തിന്റെ അടിസ്ഥാനത്തിൽ വയറുകൾ മാത്രം പൊരുത്തപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്ക് പരസിറ്റിക്സ് ആർ സിparasitics R and Cഎന്നിവ കാണാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ബഫറിനെക്കുറിച്ച് ആശങ്കയില്ല ദൈർഘ്യം തുല്യമാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ആശങ്ക എന്നാൽ നിങ്ങൾ ബഫറുകൾ പലയിടത്തും വിതരണം ചെയ്താൽ ചെറിയ ചെറിയ ബഫറുകളിൽ ബഫറുകളിൽ ചെറിയ വ്യതിയാനങ്ങളും ഉണ്ടാകും അവ നിർമ്മിക്കുമ്പോൾ 2 ബഫറുകൾ ഒരിക്കലും സമാനമാകില്ല അവയുടെ പാരാമീറ്ററുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിനാൽ ചില വ്യതിയാനങ്ങളും അവിടെ പോകും അതിനാൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മരത്തിന്റെ വയർ നീളം തുല്യമാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതിനാൽ വൃക്ഷത്തിന്റെ അരികുകളിൽ നിങ്ങൾ ബഫറുകൾ അവതരിപ്പിക്കുന്ന 2 നെ സമീപിക്കുക അതിനാൽ ഇവിടെ പറയുന്നതുപോലെ സമാനമായ ബഫറുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഓരോ ബഫറും മറ്റ് 4 ബഫറുകൾ ഓടിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ അവരുടെ വലുപ്പം അവരുടെ നിലവിലെ ഡ്രൈവിംഗ് കഴിവ് സമാനമായിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ എല്ലാ ശാഖകളിലുമുള്ള കാലതാമസം തുല്യമാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനാകും കാരണം എല്ലാ ബഫറുകൾക്കും തുല്യ കാലതാമസം ഉണ്ടാകും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് പിന്നീട് കാണാം ക്ലോക്ക് ട്രീയുടെ ഒരു പതിവ് ലേ ഔട്ട് നമുക്ക് ഉണ്ടാകാം ഇത് ബഫർ കാലതാമസം മാത്രമല്ല പരസ്പരബന്ധങ്ങളുടെ കാലതാമസവും തുല്യമാക്കാൻ കഴിയും അതിനാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള കാലതാമസം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് തുല്യമാക്കാൻ കഴിയും അതായത് വക്രത കുറയ്ക്കപ്പെടും ഇനി നമുക്ക് വിശാലമായ ടോപ്പോളജിയിലേക്ക്broad topologiesവരാം നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ പ്രകൃതിയിൽ തത്ത്വചിന്തയെക്കുറിച്ച് സംസാരിച്ചതെന്തായാലും ഞാൻ പറഞ്ഞു പല ക്ലോക്ക് സിങ്കുകളുംഒന്നുകിൽ ഒരു ക്ലോക്ക് ബഫർഉപയോഗിക്കുക അവ നല്ല രീതിയിൽ വിതരണം ചെയ്യുക അതായത് ഒരു വലിയ ബഫറിന് പകരം സ്കൂ അല്ലെങ്കിൽ വിതരണ സമയത്ത് ചെറിയ ചെറിയ ബഫറുകൾ പക്ഷേ അവയെ മരത്തിന്റെ എല്ലാ ശാഖകളിലും ഇടുക ഇപ്പോൾ ഒരു പൊതു ചിപ്പിൽ ഇത് ഒരു പ്രോസസർ ചിപ്പ് ആകാം ചിപ്പിൽ ഒരു സിസ്റ്റം ആകാം പ്രോസസ്സർ മാത്രമല്ല പ്രോസസർ ഉണ്ട് മെമ്മറി ഉണ്ട് മറ്റ് പ്രവർത്തന യൂണിറ്റുകൾ ഉണ്ട് പല തരത്തിലുള്ള സർക്യൂട്ടുകൾ ഉണ്ട് ചിപ്പ് അതിനാൽ ചിപ്പിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യകതകൾ ഒരുപോലെയല്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്ലോക്ക് വിതരണം ചെയ്യുന്നത് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന ചില വിശാലമായ സമീപനങ്ങൾ ഓരോന്നായി ഇവയെ ടോപ്പോളജിസ് ക്ലോക്ക് ടോപ്പോളജിസ് topologies the clock topologiesഎന്ന് വിളിക്കുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിനകം സംസാരിച്ച ആദ്യത്തെ ടോപ്പോളജി ക്ലോക്ക് ട്രീയാണ് അതിനാൽ നിങ്ങളുടെ മെമ്മറി പുതുക്കുന്നതിനായി ഞങ്ങൾ അടിസ്ഥാനപരമായി ഒരു ഘടന പോലെ ഒരു വൃക്ഷം വെക്കുന്നു അത് ഒരു ബൈനറി മരമാകാം ഉദാഹരണത്തിന് ഉയർന്ന അളവിലുള്ള ഒരു വൃക്ഷമാകാം ഓരോ ബഫറിനും 4 ബഫറുകൾ ഓടിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ഞാൻ കാണിക്കുന്നു 2 അതിനാൽ അവസാന ബഫർ ഡ്രൈവ് ചെയ്യും ഒരു കൂട്ടം ക്ലോക്ക് പിൻകൾ ക്ലോക്ക് ടെർമിനലുകൾ ശരിയായി ഓടിക്കുന്നു ക്ലോക്ക് ട്രീ സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇവിടെ ഈ ടോപ്പോളജിയിൽ ഞങ്ങൾ ബഫറുകളുടെ അവസാന ലെവൽ നമ്മൾ എവിടെ വെച്ചാലും ക്ലോക്ക് ടെർമിനൽ അവയോട് അടുത്ത് ആയിരിക്കണമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ബഫറുകളുടെ അവസാന ലെവൽ ക്ലോക്ക് ടെർമിനലുകൾക്ക് അടുത്തായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് അവയെ ചെറിയ വയറുകളിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയും കൂടാതെ ആ വയറുകളും ഏകദേശം തുല്യ നീളത്തിൽ ആയിരിക്കണം എന്നാൽ നിങ്ങളുടെ ലേ ഔട്ട് ഒരുവിധം പതിവുള്ളതാണെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് സാധാരണമാണെങ്കിൽ വീണ്ടും ഇത് സാധ്യമാണ് അതിനാൽ ക്ലോക്ക് ട്രീയുടെ ഈ ടെർമിനലുകളിൽ നിന്ന് ക്ലോക്ക് സിഗ്നലുകൾ ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് തുല്യമായ വയറുകൾ ക്രമീകരിക്കാൻ കഴിയും ഇത് ഒന്നാണ് രണ്ടാമത്തേത് കൂടുതൽ പൊതുവായതാണ് പല പ്രോസസർ ചിപ്പുകളും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഉപയോഗിക്കുന്നു അതിനാൽ അവർ നിർദ്ദേശിക്കുന്നത് ചില കേസ് പഠനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പിന്നീട് ഇതിലേക്ക് മടങ്ങിവരുന്നതുപോലെ ഇത് ഒരു 2 ലെവൽ വിതരണമാണ് അർത്ഥമാക്കുന്നത് മുകളിലത്തെ വിതരണത്തിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞങ്ങൾ ഒരു ക്ലോക്ക് ട്രീ ഉപയോഗിക്കുന്നു ഇതും ഒരു ബൈനറി ട്രീയാണ് ഞാൻ കാണിക്കുന്നു ഇത് ഉയർന്ന അളവിലുള്ള മറ്റേതെങ്കിലും വൃക്ഷമാകാം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൈനറി ട്രീപോലുള്ള ഘടന നിങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഒരു ക്ലോക്ക് ട്രീ ഉണ്ടെന്ന് ക്ലോക്ക് ട്രീ ഒടുവിൽ സ്റ്റോറേജ് സെല്ലുകളുടെ എല്ലാ പിന്നുകളും നൽകുന്നു അതിനാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് സ്റ്റോറേജ് സെല്ലുകൾ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല സ്റ്റോറേജ് സെല്ലുകൾതൽക്കാലം നിങ്ങൾ മറക്കും തൽക്കാലം ഞങ്ങളുടെ ചിപ്പിലുടനീളം ഞങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രിഡ് ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു ഇതാണ് ഇത് ഒരു മെറ്റാലിക് ഗാർഡ് കണക്ഷനാണ്അവയെല്ലാം ഒരുമിച്ച് ചുരുക്കിയിരിക്കുന്നു ഈ സോളിഡ് ലൈനുകൾ വയറുകളാണ് അവയെല്ലാം ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ വൃക്ഷം സൃഷ്ടിക്കുന്ന മരം മുകളിലാണ് ഓരോ ടെർമിനലിലും ക്ലോക്ക് ട്രീ മുകളിലാണ് ഡ്രൈവിംഗോ ക്ലോക്ക് ടെർമിനലോ അല്ല ഗ്രിഡിന്റെ ഒരു പോയിന്റ് ഓടിക്കുന്നു അതിനാൽ ഈ ഡയഗ്രം സംബന്ധിച്ച് ഒരു പോയിന്റ് ഈ പോയിന്റ് നയിക്കുന്നു ഒരു പോയിന്റ് ഇത് നയിക്കുന്നു അതിനാൽ ഞങ്ങളുടെ പക്കലുള്ള ഓരോ ഗ്രിഡ് ടെർമിനലുകളും അതിനാൽ ക്ലോക്ക് ട്രീ ഈ ടെർമിനലുകളെ നയിക്കുന്നു ഇതിനർത്ഥം എനിക്ക് ഒരുതരം സമാന്തര ഡ്രൈവർ കണക്ഷൻ ഉണ്ട് ഉദാഹരണത്തിന് ഈ കേസിൽ 5 മുതൽ 5 വരെ അത്തരം 25 ഡ്രൈവർമാർ ഉണ്ടായിരിക്കാം ഈ ഗ്രിഡുകളിൽ 25 പിന്നുകൾ ഓടിക്കുന്നു അതിനാൽ നിലവിലെ ഡ്രൈവിംഗ് ശേഷി 25 മടങ്ങ് കൂടുതലായിരിക്കും ഒരിക്കൽ ഞങ്ങൾ ഈ ഗ്രിഡ് ഒരു മെറ്റൽ ലെയറിലാക്കി ഇപ്പോൾ താഴത്തെ നിലയിൽ നിങ്ങൾക്ക് സർക്യൂട്ടുകൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് ക്ലോക്ക് ആവശ്യമുള്ളിടത്ത് അടുത്തുള്ള ഗ്രിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുക നിങ്ങൾ ക്ലോക്ക് ട്രീയെ ഗ്രിഡിൽ നിന്ന് വേർതിരിക്കുന്നു ക്ലോക്ക് ട്രീ പതിവ് സ്വഭാവമുള്ളതായിരിക്കും അവർ ഗ്രിഡിന് ഫീഡ് ചെയ്യും അവർ സമാന്തരമായി ഗ്രിഡ് ഓടിക്കും കൂടാതെ നിങ്ങൾക്ക് സർക്യൂട്ടുകൾ ഉള്ള താഴത്തെ നിലയിൽ അടുത്തുള്ള ഗ്രിഡിൽ നിന്ന് ക്ലോക്ക് ടാപ്പുചെയ്യുക പോയിന്റ് വൃക്ഷത്താൽ നയിക്കപ്പെടുന്ന ക്ലോക്ക് നെറ്റ് മെഷ് എന്ന് വിളിക്കപ്പെടുന്നതിന് പിന്നിലെ തത്വമാണിത് മൂന്നാമത്തെ ബദൽ നമുക്ക് വീണ്ടും ഒരു ബൈനറി ട്രീbinary treeഉണ്ട് പക്ഷേ കാലതാമസത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ക്രോസ് ലിങ്കുകൾ സബ് ട്രീ സ്സിലുടനീളം ചേർക്കാൻ കഴിയും ഈ ചുവന്ന ലിങ്ക് ഒരു ക്രോസ് ലിങ്ക്പോലെ ചിലപ്പോൾ നിങ്ങൾ ക്ലോക്ക് കാലതാമസം തുല്യമാക്കാൻ ഇത് ചെയ്യുന്നു ഒരുപക്ഷേ അതിന്റെ ചില ഭാഗത്ത് ദൈർഘ്യമേറിയ വയറുകൾ കാരണം RC കാലതാമസം കൂടുതലാണ് കാലതാമസം കൂടുതലാണ് കാലതാമസം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് 2 ശാഖകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ അവ സമാന്തരമായി വരുകയും കാലതാമസം ശരിയായിരിക്കുകയും ചെയ്യും അതിനാൽ പൊതുവേ നിങ്ങൾക്ക് ഈ ടോപ്പോളജികളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ കഴിയും ഇത് ഒരു ചിപ്പാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ക്ലോക്ക് പിൻ ഉണ്ടായിരിക്കാം പല ക്ലോക്ക് സർക്യൂട്ടുകളിലും നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു PLL ഉണ്ട് ഘടികാര സിഗ്നൽ ആന്തരികമായി സമന്വയിപ്പിക്കുന്ന ഒരു സർക്യൂട്ടിന്റെ ഘട്ടം ലോക്ക് ലൂപ്പ് തരം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയും ആഗോളമായി വിവിധ പ്രദേശങ്ങളിലേക്കും ഓരോ പ്രദേശങ്ങളിലേക്കും ഞാൻ സംസാരിച്ച ഒരു ഗ്രിഡ് ഘടന നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു ഗ്രിഡിന് ഫെഡ് നൽകുന്ന ഒരു മരം ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് ട്രീ ഉണ്ടായിരിക്കാം പക്ഷേ ഗ്രിഡ് ആവശ്യമില്ല വളരെ കുറച്ച് കണക്ഷനുകൾ ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ ക്ലോക്ക് ട്രീ ഡിസൈൻനിങ്ങൾക്ക് ഇഷ്ടാനുസൃതമാക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ വിവിധ വൃക്ഷ വിതരണ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരും